ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എല്ലിന്റെ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രവി ചന്ദ്രൻ ഇപ്പോൾ ഏഴാം ആഴ്ചയും മൊഡ്യൂൾ ഒന്ന് പ്രഭാഷണ നമ്പർ മുപ്പത്തിയേഴ് ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ കോഴ്സ് പൂർത്തിയാകും ഈ കോഴ്സ് ചെയ്യുന്നതും അസൈൻമെന്റുകൾ എഴുതുന്നതും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മൊഡ്യൂൾ നിങ്ങളെ നോൺ വെർബൽ ആശയവിനിമയത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു അതേ സമയം ഞാൻ നിങ്ങൾക്ക് നോൺ വെർബൽ ആശയവിനിമയം എന്താണെന്ന് പരിചയപ്പെടുത്തും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ രണ്ട് പ്രീ തിങ്കിംഗ് അസസ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ മൊഡ്യൂളിനായി ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുമ്പത്തേതിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വേഗത്തിൽ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ മുമ്പത്തേതിൽ ഞാൻ ശരീരഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള അറിവ് പരിശോധിക്കാൻ മൂല്യനിർണ്ണയ പ്രവർത്തനം ഉപയോഗിച്ചു അതുവഴി നിലവിലുള്ളവയിൽ അത് പഴയപടിയാക്കാനും നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കംചെയ്യാനും എനിക്ക് കഴിയും ഞാൻ മനഃപൂർവ്വം പത്ത് യഥാർത്ഥ പ്രസ്താവനകൾ നൽകി അവ മൌനത്തെ ആധിപത്യത്തിന്റെ ശക്തമായ മാർഗമായി ഉപയോഗിക്കാം നോൺ വെർബൽ ആശയവിനിമയത്തിന് വാക്കാലുള്ള അർത്ഥത്തെ എതിർക്കാൻ കഴിയും മൂന്നാമത്തെ പ്രസ്താവന വാക്കാലുള്ള ആശയവിനിമയം വാക്കാലുള്ള ആശയവിനിമയത്തിന് പകരമായി ഉപയോഗിക്കാം എന്നതാണ് നാല് ചില നോൺ വെർബൽ അടയാളങ്ങൾ സാർവത്രികവും സാധാരണയായി സ്വീകാര്യവുമാണ് അഞ്ച് സമാനമായ വാക്കാലുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന ആംഗ്യങ്ങൾക്ക് അവയുടെ സാംസ്കാരിക പശ്ചാത്തലമനുസരിച്ച് വാക്കേതരമായി വ്യത്യാസപ്പെടാം ആറ് വാക്കേതര ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ ചാനലാണ് മുഖം ഏഴാമതായി നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളിൽ നിന്ന് അകന്നുപോകുന്നു എട്ട് നെഗറ്റീവ് നോൺ വെർബൽ സിഗ്നലുകൾ പോസിറ്റീവ് സിഗ്നലുകളേക്കാൾ കൂടുതൽ ശ്രദ്ധേയമാണ് ഒൻപത് നിങ്ങളുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള അവബോധം അത് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും അവസാനത്തേത് പത്താമത്തേത് ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് സമാപനത്തിൽ ആക്സസറികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു ആക്സസറികൾ മെച്ചപ്പെടുമോ അതോ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളായി പ്രവർത്തിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആക്സസറികൾക്ക് ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾ ആക്സസറികൾ എത്രത്തോളം ഉചിതമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് തടസ്സങ്ങളായി പ്രവർത്തിക്കാനും കഴിയും എന്നതാണ് ഉത്തരം ഞാൻ നൽകിയ ചില ഉദാഹരണങ്ങളിൽ ഒന്ന് ഉദാഹരണത്തിന് സ്ത്രീകൾ ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നത് അതിനാൽ അവരുടെ മേലധികാരിയെ കണ്ണുതുറന്ന് നോക്കുമ്പോൾ അത് അവർക്ക് ഒരുതരം പവർ റിലേഷൻഷിപ്പ് തുല്യത നൽകുന്നു എന്നാൽ അതേ സമയം അവർ ഡയമണ്ട് സ്റ്റഡ്ഡ് ഹൈ ഹീൽ ഗിൽറ്റ് എഡ്ജ് എന്നിവ ധരിക്കാൻ പോകുകയാണെങ്കിൽ അവ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയും ആശയവിനിമയത്തിന് തടസ്സങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യും ആളുകൾ അവരുടെ ഹൈ ഹീൽ നോക്കും പക്ഷേ കണ്ണ് സമ്പർക്കം നിലനിർത്തില്ല നിങ്ങൾ ആശയവിനിമയം നിങ്ങൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ലാതെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക അതിനാൽ ഏതെങ്കിലും അനുചിതമായ ആക്സസറി തടസ്സമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ഉപസംഹരിച്ചു അത് എന്തും ആകാം നിങ്ങൾ അമിതമായി വസ്ത്രം ധരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴോ ആകാം രണ്ട് സാഹചര്യങ്ങളിലും ഇത് തടസ്സമായി പ്രവർത്തിക്കും ശരീര സുഗന്ധം ലിംഗപരമായ അനുയോജ്യത ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു എതിർ ലിംഗക്കാർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പുരികങ്ങൾ ഉയർത്തുന്നു ആളുകൾ നിങ്ങളെ നോക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ നിങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ഏതുതരം വ്യക്തിയാണെന്നും അറിയാൻ അവർ ആഗ്രഹിക്കുന്നു അത് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു വാച്ച് വീണ്ടും ധരിക്കാൻ കഴിയും പക്ഷേ വളരെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഒന്നല്ല കമ്മലുകൾ മേക്കപ്പ് മുടി ചായം പൂശൽ പോലും ഇത് ചില പശ്ചാത്തല ജോലികൾ ചെയ്യാൻ മാത്രമാണ് എന്നാൽ എല്ലാവരും നിങ്ങളെ നോക്കുന്ന വളരെ തിളങ്ങുന്ന മൾട്ടി കളർ ഹെയർ ഡൈ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രാഥമിക വിലയിരുത്തൽ മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്കിംഗ് എവിടെയായിരുന്നാലും നമുക്ക് ഇപ്പോൾ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ വശങ്ങളിലേക്ക് കൂടുതൽ പോകാം എന്താണ് നോൺ വെർബൽ ആശയവിനിമയം എന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ആരംഭിക്കുന്നതിന് മുമ്പ് ശരീരഭാഷയെക്കുറിച്ചുള്ള ഈ ഉദ്ധരണിയിൽ നിന്ന് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രശസ്തനായ എഴുത്തുകാരനായ റാൽഫ് വാൾഡോ എമേഴ്സണിൽ നിന്നുള്ളതാണ് ശരീരഭാഷയുടെ പ്രാധാന്യത്തെ യഥാർത്ഥത്തിൽ മുൻനിർത്താൻ ശ്രമിക്കുന്ന ഉദ്ധരണി നോക്കുക അദ്ദേഹം പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനാൽ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല നിങ്ങളുടെ ശരീരഭാഷ എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ വാക്കുകൾ പോലും ഞാൻ കേൾക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ വാക്കാലുള്ള ആശയവിനിമയം നിങ്ങളുടെ വാക്കേതര ആശയവിനിമയത്തേക്കാൾ വളരെ കുറവാണ് അതാണ് അദ്ദേഹം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇത് മനസ്സിൽ വയ്ക്കുക ഇപ്പോൾ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കേവലം നോൺ വെർബൽ ആശയവിനിമയം സംസാരിക്കുന്നത് വാക്കുകളില്ലാത്ത ആശയവിനിമയമാണ് വാക്കുകൾ ഉപയോഗിക്കാതെ ചിത്രങ്ങൾ ചിഹ്നങ്ങൾ അടയാളങ്ങൾ ആംഗ്യങ്ങൾ മുഖഭാവങ്ങൾ ഭാവങ്ങൾ മുതലായവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ നോൺ വെർബൽ ആശയവിനിമയം ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഒരു പുഞ്ചിരിക്കോ പുഞ്ചിരിക്കോ വാക്കുകളില്ലാതെ ആശയവിനിമയം നടത്താനും സന്ദേശം അറിയിക്കാനും കഴിയും ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യവും ദേഷ്യവും തോന്നും അവർക്ക് വെറുതെ പുഞ്ചിരിക്കാം അതിനാൽ അത് എന്തെങ്കിലും പറയുന്നതിനേക്കാൾ വളരെ അർത്ഥവത്തായ സന്ദേശം നൽകുന്നു നോൺ വെർബൽ ആശയവിനിമയം ചലനാത്മകവും തുടർച്ചയായതുമായ ആശയവിനിമയ പ്രക്രിയയാണ് അതാണ് ഈ ആശയവിനിമയത്തിന്റെ യോഗ്യതയും പരിമിതിയും ഈ ആശയവിനിമയത്തിന്റെ അപകടവും സ്വത്തും ഇത് ചലനാത്മകവും തുടർച്ചയായതുമായ ആശയവിനിമയ പ്രക്രിയയാണ് അയയ്ക്കുന്നവരും സ്വീകരിക്കുന്നവരും സാധാരണയായി മനസ്സിലാക്കുന്ന കോഡുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് അവസാനിക്കുന്നില്ല കോഡ് മഞ്ഞ റോസാപ്പൂവ് പോലെയാകാം നിങ്ങൾ നൽകുമ്പോൾ അത് സൌഹൃദമാണെന്ന് മനസ്സിലാകും ഒരു വെളുത്ത പ്രാവിനെ അയച്ചാൽ നിങ്ങൾക്ക് സമാധാനം വേണമെന്ന് നിങ്ങൾക്കറിയാം ഒരു രാജ്യത്തിന്റെ ഓരോ പതാകയും ഒരു പ്രതീകമാണ് അത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു രാജ്യത്ത് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന രീതി ആളുകൾക്ക് പോലും മനസ്സിലാകും അതിനാൽ അവരും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു പിന്നെ കേൾക്കാൻ കഴിയാത്തവർ കാണാൻ കഴിയാത്തവർ മറ്റ് കഴിവുകളുള്ളവർ എന്നിവർ ഉപയോഗിക്കുന്ന ഭാഷ അതിനാൽ വാക്കുകൾ ഉപയോഗിക്കാതെ അവരുമായി ആശയവിനിമയം നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇവ വാക്കേതര ആശയവിനിമയത്തിന്റെ വശങ്ങളാണ് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ വസ്തുത പൊതുവായി ആശയവിനിമയവുമായി ബന്ധപ്പെട്ടതാണ് ആശയവിനിമയത്തിൽ 93 ശതമാനം നോൺ വെർബൽ ആശയവിനിമയമായ ശരീരഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കില്ല എന്നത് വളരെ അതിശയകരമായ ഒരു ഘടകമാണ് ഇത് 7 ശതമാനം മാത്രമാണ് അല്ലെങ്കിൽ വാക്കാലുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അക്ഷരാർത്ഥത്തിൽ വാക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ പ്രശസ്തനായ സൈദ്ധാന്തികനായ ആൽബർട്ട് മെഹ്റാബിയൻ തന്റെ കണ്ടെത്തലുകൾക്ക് തുടക്കമിടുകയും തുടർന്ന് നിശബ്ദ സന്ദേശം എന്ന പുസ്തകത്തിൽ ഈ നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കട്ടെ നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നൽകി മിക്ക ആശയവിനിമയവും നോൺ വെർബൽ ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത ചിത്രീകരണത്തിലേക്ക് നോക്കൂ അവിടെ 55 ശതമാനം പൂർണ്ണമായും മഞ്ഞ ഭാഗം നോൺ വെർബൽ ആണ് 38 ശതമാനം ഓറഞ്ച് ഭാഗം ഓക്കൽ ആണ് അത് വാക്കാലുള്ളതല്ല മറിച്ച് സെൻസ് ടോൺ ഇൻഫ്ലക്ഷൻ മറ്റ് ശബ്ദങ്ങൾ എന്നിവയിൽ ഓക്കൽ ആണ് അതിനാൽ ഇവ യഥാർത്ഥത്തിൽ വാക്കുകളല്ല മറിച്ച് അവ ഓക്കൽ ആണ് എന്നിരുന്നാലും അവ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നു ആരെങ്കിലും ഇടയ്ക്കിടെ അങ്ങനെ പറയുന്നത് സംസാരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ പരിഭ്രാന്തരാകുമെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ആശയവിനിമയം നടത്തുന്ന കാര്യങ്ങൾ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന 7 ശതമാനത്തിലധികം വാക്കുകളെ അറിയിക്കുന്നു അറിയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 7 ശതമാനം വാക്കുകൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചുവെന്ന് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് നിങ്ങൾ തീർച്ചയായും ധാരാളം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ 7 ശതമാനം മാത്രമേ പ്രേക്ഷക മനസ്സിൽ സ്വാധീനം ചെലുത്തൂ ബാക്കിയുള്ള ഭാഗം 93 ഭാഗം സ്വാധീനം അല്ലെങ്കിൽ ലഭിച്ച സന്ദേശം യഥാർത്ഥത്തിൽ നോൺ വെർബൽ ഭാഗം ഉപയോഗിക്കുന്നു അതിനാൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ വാക്കാലുള്ളതും അല്ലാത്തതുമായ ഈ കണക്കുകൂട്ടൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചേക്കാം അതിനാൽ നമ്മൾ എന്തിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് അതിനാൽ ഞാൻ സംസാരിക്കുന്നത് മതിയാകില്ലേ തുടർന്ന് എന്റെ ശരീരഭാഷയെക്കുറിച്ചും എനിക്കറിയാം തീർച്ചയായും നോൺ വെർബൽ സന്ദേശങ്ങളുടെ പ്രാധാന്യം വളരെ വ്യക്തമാണ് നോൺ വെർബൽ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ വികാരങ്ങൾ ആശയവിനിമയം ചെയ്യുന്നതിനാൽ നിങ്ങൾ വാക്കാലുള്ള സന്ദേശം ഉപയോഗിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുക്കുന്നുവെന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ തലച്ചോറാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ വായയാണ് സംസാരിക്കുന്നത് വാക്കുകൾ പുറത്തുവരുന്നു എന്നാൽ നോൺ വെർബൽ സന്ദേശങ്ങളുടെ കാര്യത്തിൽ അത് വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകൾ മാത്രമല്ല അത് ഏത് സ്വരത്തിലാണ് പുറത്തുവരുന്നത് നിങ്ങളുടെ കണ്ണുകൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയം എന്താണ് നിങ്ങളുടെ കൈകൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഭാവം നിലനിർത്തുന്നു കണ്ണ് സമ്പർക്കത്തെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ആശയവിനിമയത്തിന്റെ ആ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ഉൾപ്പെട്ടിരിക്കുന്ന വൈകാരിക ക്രമീകരണം ആശയവിനിമയം നടത്താൻ ഈ കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നു നിങ്ങൾ സന്തുഷ്ടനാണെന്നും നിങ്ങൾ സന്തോഷവാനാണെന്നും നിങ്ങൾ സാധാരണക്കാരനാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ അസാധാരണനാണെന്നും നിങ്ങൾ അസ്വസ്ഥരാണെന്നും നിങ്ങൾ അസന്തുഷ്ടനാണെന്നും അതിനാൽ നിങ്ങൾ നിരാശനാണെന്നും അത് മറ്റേ വ്യക്തിയോട് പറയും അതിനാൽ നിങ്ങൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് എല്ലാം പോകാം അതിനാൽ നോൺ വെർബൽ സിഗ്നലുകളിലൂടെ വികാരങ്ങൾ ആശയവിനിമയം നടത്തുന്നു എന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ മറ്റൊരു രസകരമായ വശം നോൺ വെർബൽ സന്ദേശങ്ങൾ മറയ്ക്കാനും ബോധപൂർവ്വം നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാണ് എന്നതാണ് അടുത്ത പ്രഭാഷണത്തിൽ സ്വമേധയാ ഉള്ളതും സ്വമേധയാ ഇല്ലാത്തതുമായ മാനങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോലും നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മറയ്ക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ബോധപൂർവ്വം നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അറിവില്ലാതെ ചില അബോധാവസ്ഥയിലുള്ള നോൺ വെർബൽ ആശയവിനിമയം നടത്തുന്നു അത് മറ്റേ വ്യക്തിക്കും പ്രേക്ഷകർക്കും ഉപയോഗിക്കാനും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസിലാക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് മനസിലാക്കാനും കഴിയും അതിനാൽ നിങ്ങളെ വെളിപ്പെടുത്തുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിന്റെ കൂടുതൽ കൃത്യമായ സൂചകങ്ങളാണ് അതിനാൽ ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വാക്കാലുള്ളവ നിർത്താൻ കഴിയും നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ നിശബ്ദവും ശാന്തവുമായിരിക്കുന്ന നിമിഷം അതിനാൽ വാക്കാലുള്ള ആശയവിനിമയം നിർത്തി പക്ഷേ ഒരിക്കലും വാക്കേതരമല്ല അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും നോൺ വെർബൽ ആശയവിനിമയം നിർത്താൻ കഴിയില്ല അതിനാൽ ഇതിനെക്കുറിച്ചുള്ള രസകരമായ വസ്തുത ഇതാണ് എന്നിരുന്നാലും നോൺ വെർബൽ ആശയവിനിമയം വാക്കാലുള്ള ആശയവിനിമയവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് അത് ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ അവ പരസ്പരാശ്രിതമാണെന്നും അവ തടസ്സമില്ലാത്ത മിശ്രിതമാണെന്നും വേർതിരിക്കാൻ കഴിയില്ല അതിനാൽ എക്മാനും ഫ്രൈസനും അവർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർ അഞ്ച് അടിസ്ഥാന പ്രവർത്തനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ വാമൊഴിയായി ആവർത്തിക്കണമെന്ന് അവർ പറഞ്ഞു അതിനാൽ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിരിക്കാം പരമാവധി ടീച്ചർ 0 എന്ന് പറയുകയും തുടർന്ന് അവർ 0 കാണിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവർ 4 എന്ന് പറയുകയും ചെയ്യും തുടർന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ വാക്കാലുള്ള നോൺ വെർബൽ ഉപയോഗിച്ച് ആവർത്തിക്കും അതിനാൽ അവർ അത് കയ്യിൽ കാണിക്കും അല്ലെങ്കിൽ അവർ ആംഗ്യം കാണിക്കും അവർ അഭിപ്രായമിടുകയോ വാക്കാലുള്ള അർത്ഥം വ്യക്തമാക്കുകയോ ചെയ്യും അതിനാൽ ഉദാഹരണത്തിന് ഇത് പുതിയ ഉപകരണമാണെന്ന് അവർ പറയുന്നു ഇത് ഇതുപോലെ കാണപ്പെടുന്നു അവർ നിങ്ങളോട് വാക്കാലുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിനാൽ അവർ ഒരു ഫോട്ടോ ഒരു ചിത്രം കാണിക്കുന്നു അതിനാൽ നിങ്ങളോട് എന്താണ് പറയുന്നത് അതിനാൽ ക്ലാസ്സിൽ വിവരിക്കുന്ന മിക്ക വസ്തുക്കളും അധ്യാപകൻ അത് വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു ചിത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു അതിനാൽ വാക്കാലുള്ള അർത്ഥം അല്ലെങ്കിൽ അഭിനന്ദനം വ്യക്തമാക്കാനോ അതിലേക്ക് ചേർക്കാനോ നോൺ വെർബൽ ഉപയോഗിക്കുന്നു വാക്കേതര ആശയവിനിമയത്തിന്റെ അടുത്ത രസകരമായ പ്രവർത്തനം അതിന് വാക്കാലുള്ള അർത്ഥത്തെ എതിർക്കാൻ കഴിയും എന്നതാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് ഞാൻ പറയുന്നു എനിക്ക് വിശപ്പില്ല സാധാരണയായി ഇന്ത്യൻ ആചാരം ദക്ഷിണേഷ്യൻ ആചാരം സാധാരണയായി പറയുന്നു നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ മര്യാദയുള്ളവരായിരിക്കുക നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോലും അത് കാണിക്കരുത് അതിനാൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിലും ഇല്ല ഇല്ല എനിക്ക് വിശപ്പില്ല എനിക്ക് ശരിക്കും വിശപ്പില്ല ദയവായി എനിക്ക് ഒന്നും നൽകരുതെന്ന് നിങ്ങൾ പറയുന്നത് പതിവാണ് അതിനാൽ അവൾ നിങ്ങളോട് ഇല്ല എന്ന് പറയുമെന്ന് ആതിഥേയനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ദയവായി അത് കഴിക്കുക ദയവായി ഒരു റൊട്ടി കഴിക്കുക ദയവായി കുറച്ച് അരി കഴിക്കുക അതിനാൽ ആ വ്യക്തി പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എനിക്ക് താൽപ്പര്യമില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പാകം ചെയ്ത ഇനങ്ങളിലേക്ക് നോക്കുന്നു നിങ്ങളുടെ മൂക്ക് ഇതിനകം മണക്കുന്നു അപ്പോൾ നിങ്ങളുടെ വായിൽ വിശപ്പ് അനുഭവപ്പെടുന്നതിനാൽ ഇതിനകം ഉമിനീർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബുദ്ധിമാനും സമർത്ഥനുമായ ആതിഥേയൻ ഇത് ശ്രദ്ധിക്കും നിങ്ങൾക്ക് ശരിക്കും വിശക്കുന്നുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ എളിമയോടെ നിങ്ങൾ വിശക്കുന്നില്ലെന്ന് മാത്രമാണ് പറയുന്നത് അതിനാൽ അപ്പോഴും അവർ നിങ്ങളെ കൂടുതൽ സേവിക്കുമ്പോൾ അവർ കൂടുതൽ അരി ഇടുന്നു നിങ്ങൾ ഇല്ല എന്ന് പറയുന്നു ഇല്ല ഇല്ല എനിക്ക് അത് ആവശ്യമില്ല പക്ഷേ അവർ നിങ്ങളെ നോക്കുന്നു അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് വേണമെന്ന് തോന്നുന്നുവെന്ന് അവർക്കറിയാം നിങ്ങളുടെ കൈകൾ വേണ്ട എന്ന് പറയുന്നതിനുപകരം നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ നൽകാൻ കഴിയുമെന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ നിങ്ങളുടെ ശരീരം അവരോട് പറയുന്നുവെന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല വാക്കാലുള്ള ഇടപെടൽ നിയന്ത്രിക്കുക വാക്കാലുള്ള ഇടപെടൽ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു ഉദാഹരണത്തിന് മുൻനിരയിൽ ഇരിക്കുന്നവർക്ക് ഞാൻ പത്ത് ജോലികൾ നൽകാൻ പോകുന്നുവെന്ന് അധ്യാപകൻ പറയുന്ന ഒരു സാഹചര്യം എടുക്കുക അതിനാൽ ഞാൻ ഒരെണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരെണ്ണം എന്ന് പറയുകയും തുടർന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യ ടാസ്ക് നൽകുകയും ചെയ്യും പത്ത് പേരെ വരെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു അതിനാൽ അധ്യാപകൻ ഒന്ന് പറയുന്നു തുടർന്ന് ആദ്യ വ്യക്തി എഴുന്നേറ്റ് ഒന്ന് പറയുന്നു തുടർന്ന് അധ്യാപകൻ രണ്ട് പറയുന്നു രണ്ടാമത്തെ വ്യക്തി എഴുന്നേറ്റ് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്നു ഇപ്പോൾ നാലോ അഞ്ചോ എന്ന് പറഞ്ഞതിന് ശേഷം അധ്യാപകൻ നിർത്തി വിരൽ കാണിക്കുന്നു ആ വ്യക്തി എഴുന്നേറ്റ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്നു അതിനാൽ യഥാർത്ഥത്തിൽ അധ്യാപകൻ വാക്കാലുള്ള ഇടപെടൽ തുടരേണ്ടതില്ല കുറച്ച് സമയത്തിന് ശേഷം നോൺ വെർബൽ ആംഗ്യം ഉപയോഗിച്ച് പ്രേക്ഷകർക്ക് മനസ്സിലാകും അവസാനത്തെ രസകരമായ കാര്യം ഇത് പൂർണ്ണമായും വാക്കാലുള്ള അർത്ഥത്തിന് പകരമായി ഉപയോഗിക്കാം എന്നതാണ് അതിനാൽ നിങ്ങൾ വളരെയധികം ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അധ്യാപകന് വിരൽ വായിൽ വയ്ക്കാം എന്നിട്ട് മിണ്ടാതിരിക്കൂ എന്ന് പറയാം എന്നതാണ് ഏറ്റവും മികച്ച ഉദാഹരണം അതിനാൽ ഒന്നും പറയാതെ ആളുകൾക്ക് ഉടൻ തന്നെ മനസ്സിലാകുകയും അവർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിരവധി ഉദാഹരണങ്ങൾ അത് വാക്കാലുള്ള അർത്ഥത്തിന് പകരമായി ഉപയോഗിക്കാം ഇപ്പോൾ ഇവയാണ് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നോക്കാം തുടർന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിവോടെയുള്ള തീരുമാനമെടുക്കാം നോൺ വെർബൽ ആശയവിനിമയമാണോ അതോ നിങ്ങളുടെ ശരീരഭാഷയാണോ നോൺ വെർബൽ ആംഗ്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വയം പെരുമാറുന്ന രീതി പ്രകൃതി കാരണമാണോ അതോ പരിപോഷിപ്പിച്ചതാണോ എന്നതാണ് ചർച്ച അതിനാൽ പ്രകൃതി സൂചിപ്പിക്കുന്നത് അത് ജനിതകശാസ്ത്രത്തിലൂടെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് ജീനുകളിലൂടെയാണ് ലഭിച്ചത് അത് പാരമ്പര്യവും അത് സ്വതസിദ്ധവുമാണ് നർച്ചർ സൂചിപ്പിക്കുന്നത് അത് നാഗരികമാകാം അത് കൃഷിചെയ്യപ്പെടുന്നു അത് സംസ്കാരത്തിലൂടെയും സമൂഹത്തിലൂടെയും ആളുകളിലൂടെയും നിങ്ങൾക്ക് നൽകപ്പെടുന്നു നിങ്ങൾ അത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തു നിങ്ങൾ അനുകരിച്ചു മറ്റുള്ളവരിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് പഠിച്ചു പക്ഷേ അത് നിങ്ങളുടെ ജീനുകളിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ നിങ്ങൾ ജനിതകശാസ്ത്ര ചർച്ച എടുക്കുകയാണെങ്കിൽ തെളിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കണ്ണുകൾ ചുരുങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾ സാർവത്രികവും സ്വാഭാവികവുമാണ് അതിനാൽ സാധാരണയായി അവർ സൂചിപ്പിക്കുന്നത് ക്രൂരരായ ആളുകൾ അധികാരം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദുഷ്ടരും തന്ത്രശാലികളുമായ ആളുകൾ അവരുടെ കണ്ണുകൾ ചുരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവർ പറയുന്നു ജാപ്പനീസ് കോമിക് മംഗയിൽ പോലും ഇത് വ്യക്തമായി കാണിച്ചിരിക്കുന്നു നായകന്മാർ വിശാലമായ കണ്ണുകളും നിരപരാധികളുമാണ് നിങ്ങൾ പോലും കുട്ടികളെ കാണും അവർ ആകർഷിക്കപ്പെടുമ്പോൾ അവർ നിരപരാധികളാണെന്ന് സൂചിപ്പിക്കുന്നതിന് കൂടുതലും വിശാലമായ കണ്ണുകളായിരിക്കും അതിനാൽ ചീത്ത ആളുകളെ എല്ലായ്പ്പോഴും ഇടുങ്ങിയ കണ്ണുകളോടെയാണ് കാണിക്കുന്നത് ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതാണെന്നും ഇത് സ്വാഭാവികമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണെന്നും അവർ പറയുന്നു ജനിതകശാസ്ത്രത്തിലൂടെ ഇത് നമ്മിലേക്ക് വരുന്നുവെന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്ന മറ്റൊരു വശം നമ്മുടെ പ്രദേശബോധം നമ്മൾ പ്രദേശം ഉപയോഗിക്കുന്ന രീതി നമ്മുടെ ചുറ്റുപാടുകൾ ഉപയോഗിക്കുന്ന രീതി നമ്മുടെ വീട് എന്നാണ് മൃഗങ്ങളും പക്ഷികളും അവരുടെ കൂട് ഉപയോഗിക്കുന്ന രീതി പോലെയാണെന്ന് അവർ പറയുന്നു നമ്മുടെ വീട് നമ്മുടെ കൂടാണ് പക്ഷികൾ അവരുടെ കൂടുകളിൽ പോയി ഉറങ്ങുന്നത് പോലെ ഞങ്ങൾ പോയി ഞങ്ങളുടെ വീട് ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ അതിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു മറ്റേതെങ്കിലും ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നും ബാഹ്യ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ അതിനെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ വീടിനുള്ളിൽ ഞങ്ങളുടെ സ്വകാര്യ ഇടം സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് അടുത്ത ആളുകളുണ്ട് അതിനാൽ നിങ്ങൾ ഡൈനിംഗ് റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിഥികളെ ക്ഷണിക്കാൻ കഴിയും പക്ഷേ അത് ഒരു കിടപ്പുമുറിയിലോ സുഖപ്രദമായ സോഫയിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ വളരെ തിരഞ്ഞെടുക്കുന്നവരാണ് അത് നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളാണ് ആരെങ്കിലും നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോൾ അത് വീണ്ടും നിങ്ങളുടെ സ്വന്തം കുടുംബാംഗമാണ് അതിനാൽ പുറത്തുനിന്നുള്ള വ്യക്തിയല്ല അതിനാൽ പ്രദേശം ഉപയോഗിക്കുന്ന രീതി മൃഗങ്ങളുടെയും പക്ഷികളുടെയും സഹജാവബോധം പോലെ നിങ്ങൾക്ക് സ്വാഭാവികമായി വരുന്ന ഒന്നാണെന്ന് ആളുകൾ വീണ്ടും വാദിക്കുന്നു എന്നാൽ മറ്റൊരു ചർച്ച നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ് അവിടെ അത് പ്രകൃതിയല്ലെന്ന് നാം മനസ്സിലാക്കുന്നു എന്നിരുന്നാലും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഈ രണ്ട് വശങ്ങൾ പോലെ നമുക്ക് സാർവത്രികമായി അംഗീകരിക്കാൻ കഴിയുന്ന ചില അടിസ്ഥാന അടിസ്ഥാന കാര്യങ്ങളുണ്ട് അതായത് കണ്ണുകൾ വെളുപ്പിക്കുന്നതും പിന്നീട് ഇടുങ്ങിയതും തുടർന്ന് പ്രദേശം ഉപയോഗിക്കുന്നതും എല്ലാം നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉദാഹരണങ്ങളായി കാണിക്കുന്നു എന്നാൽ ഹാൾ ഗോഫ്മാൻ എന്നിവരെപ്പോലുള്ള നരവംശശാസ്ത്രജ്ഞരും സാമൂഹ്യശാസ്ത്രജ്ഞരും നോൺ വെർബൽ ആശയവിനിമയം ഒരു പഠിച്ച സ്വഭാവമാണെന്നും ആഗ്രഹിച്ച പെരുമാറ്റം പോലും വളർത്തിയെടുക്കാൻ കഴിയുമെന്നും വാദിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചില മര്യാദകൾ മേശ ശീലങ്ങൾ എങ്ങനെ കഴിക്കണം എന്നിവ വികസിപ്പിക്കണമെങ്കിൽ അതിനാൽ തികച്ചും സംസ്കാരമില്ലാത്ത ഒരു വ്യക്തിയെ വളരെ ഔപചാരികമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ ആ വ്യക്തിയെ പരിശീലിപ്പിക്കാൻ കഴിയും അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോയാൽ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് പരിശീലനമുണ്ട് അതിനാൽ ജപ്പാനെപ്പോലുള്ള കോഴ്സുകൾ ഉണ്ട് ഉദാഹരണത്തിന് പരസ്യമായി എങ്ങനെ പെരുമാറണം എങ്ങനെ പരിചയപ്പെടുത്തണം എങ്ങനെ അഭിനന്ദനം പ്രകടിപ്പിക്കണം മറ്റുള്ളവർക്ക് മുമ്പ് എങ്ങനെ ഭക്ഷണം കഴിക്കണം അതിനാൽ ഇപ്പോൾ ആ പെരുമാറ്റം വളർത്തിയെടുക്കാൻ കഴിയും അത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതും രസകരവുമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന ആശയം ശരീരഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ അത്ര നല്ലവനല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് മറ്റാരെങ്കിലും നിങ്ങളെക്കാൾ മികച്ചവരാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ശരീരഭാഷ വികസിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അത് സാധ്യമാണ് അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ ചില തന്ത്രങ്ങൾ ചില സാങ്കേതികവിദ്യകൾ ശരീരഭാഷയുടെ ചില വശങ്ങൾ എന്നിവ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പരിശീലിക്കാൻ തുടങ്ങാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരാകാം പ്രശ്നമുണ്ടാക്കുന്ന ഒന്ന് നിയന്ത്രിക്കാം തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ നോൺ വെർബൽ സ്വഭാവം പഠിക്കാനും നിങ്ങൾക്ക് അറിയാവുന്നത് വളർത്തിയെടുക്കാനും കഴിയുമെന്ന് ഓർമ്മിക്കുക ഹാളും മെഹ്റ ബിയാനും സംസാരിക്കുന്ന മറ്റൊരു വശമുണ്ട് അവർ മനശാസ്ത്രജ്ഞരും ആശയവിനിമയ സിദ്ധാന്തങ്ങളുമാണ് നമ്മൾ നോൺ വെർബൽ ആശയവിനിമയം ഉപയോഗിക്കുന്ന പ്രധാന തരംഗം പ്രവർത്തനക്ഷമമായതിനാൽ ഇത് സാധ്യമാണെന്ന് അവർ കരുതുന്നു അതിൻ്റെ അർത്ഥമെന്താണ് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ നൽകിയതുപോലെ നിങ്ങൾ എന്തെങ്കിലും പാരാഗ്ലൈഡിംഗ് നടത്തുകയാണെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ആകാശത്തേക്ക് മുങ്ങുകയാണ് അതിനാൽ ആശയവിനിമയത്തിന്റെ ഏക മാർഗ്ഗം ആംഗ്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് തുടർന്ന് അത് ഒരു ആസൂത്രിത ആംഗ്യമാണ് നിങ്ങൾ കടലിലേക്ക് ആഴത്തിൽ മുങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വാക്കുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ വാക്കുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുക നിങ്ങൾ ഇതിനകം ശ്വസിക്കുന്നു തുടർന്ന് നിങ്ങളുടെ വായിലൂടെ ഒന്നും പറയാൻ കഴിയില്ല അതിനാൽ കൈ ആംഗ്യത്തിലൂടെയും കണ്ണുകളിലൂടെയും നിങ്ങളുടെ ചലനത്തിലൂടെയും മാത്രമേ നിങ്ങൾക്ക് മറ്റേ വ്യക്തിയുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്താൻ കഴിയൂ നിങ്ങൾ നിർത്തുകയാണെങ്കിലും എന്നെ പിന്തുടരുകയാണെങ്കിലും നീങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് പിന്നിൽ ചില അപകടങ്ങളുണ്ട് അതിനാൽ നിങ്ങൾക്ക് പ്രവർത്തനക്ഷമമായ രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അതിനാൽ നിങ്ങൾ നോൺ വെർബൽ ആംഗ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ അത് പ്രവർത്തനക്ഷമമാകും അതിനാൽ നിങ്ങൾ അത് പഠിക്കേണ്ടതുണ്ടെന്ന് അവർ പൊതുവെ വിശ്വസിക്കുന്നു മിക്കപ്പോഴും ഞങ്ങൾ ഇത് പ്രവർത്തനപരമായ ഉദ്ദേശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഒരു അഭിമുഖത്തിന് പോകുമ്പോൾ പോലും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും നിങ്ങൾ നോൺ വെർബൽ ആശയവിനിമയം പ്രവർത്തനപരമായ രീതിയിൽ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രവർത്തനപരമായ അർത്ഥത്തിൽ ആവശ്യമുള്ളതിനാൽ നിങ്ങൾ അത് കൃഷി ചെയ്യുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അത് വികസിപ്പിക്കുകയും തുടർന്ന് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യും ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന്റെ തന്നെ ഒരു പ്രധാന ഭാഗമാണെന്നും നിങ്ങൾക്ക് അത് വികസിപ്പിക്കാൻ കഴിയുമെന്നും നിങ്ങളോട് പറഞ്ഞു ഈ ഉദ്ധരണി നോക്കൂ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ ഇത് ഒരു ജാനറ്റ് ലെയ്നിൽ നിന്ന് നിങ്ങൾ ധരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആവിഷ്കാരമാണ് ഏറ്റവും പ്രധാനമെന്ന് അവർ പറയുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഓർക്കുക ഞാൻ അവസാനം ആക്സസറികളെക്കുറിച്ച് സംസാരിച്ചു പേന ബെൽറ്റ് വസ്ത്രങ്ങൾ കണ്ണട പോലും പോലുള്ള വാച്ച് പോലുള്ള ഭൌതിക വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ധരിക്കുന്ന വസ്തുക്കളാണ് ആക്സസറികൾ അതിനാൽ അവയെല്ലാം ആക്സസറികളാണ് അതിനാൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ധരിക്കുന്നു നമ്മൾ പോലും ഹെൽമെറ്റ് ധരിക്കുന്നു ആളുകൾ പോലും ഇന്ന് ഹെൽമെറ്റിനെക്കുറിച്ചും ആകർഷകമായ ഹെൽമെറ്റിനെക്കുറിച്ചും വളരെ ശ്രദ്ധാലുക്കളാണ് നിങ്ങൾ ധരിക്കുന്ന എല്ലാ വസ്തുക്കളിലും നിങ്ങൾ ധരിക്കുന്ന ആക്സസറികൾ എന്തുതന്നെയായാലും നിങ്ങളുടെ ആവിഷ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനർത്ഥം ആക്സസറികൾക്ക് ആശയവിനിമയ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് മുമ്പത്തേതിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെ പറയുന്നത് മെറ്റീരിയൽ ആക്സസറികൾക്ക് പുറമെ നിങ്ങളുടെ മുഖത്തിന് നൽകാൻ കഴിയുന്ന ഭാവങ്ങളാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് പുഞ്ചിരിക്കാം നിങ്ങൾക്ക് പുഞ്ചിരിക്കാം നിങ്ങൾക്ക് ഒരു നിഗൂഢ രൂപം നൽകാം നിങ്ങൾക്ക് സംതൃപ്തമായ രൂപം നൽകാം അതിനാൽ നിങ്ങൾ ധരിക്കുന്ന വസ്തുക്കളേക്കാൾ നിങ്ങളുടെ ആവിഷ്കാരത്തിൽ നിന്നാണ് മറ്റേയാൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഭൌതിക വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ധരിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആവിഷ്കാരമാണ് ഏറ്റവും പ്രധാനം അതിനാൽ അവർ സാധാരണയായി പറയുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരം പുഞ്ചിരിയാണ് അതിനാൽ പുഞ്ചിരി നിങ്ങളുടെ മുഖവില വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതിനാൽ പുഞ്ചിരിക്കുകയും ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി പറയുകയും ചെയ്യുക അടുത്തതിൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങിവരും വാക്കേതര ആശയവിനിമയത്തിന്റെ ഈ വശം ഞാൻ തുടരും